നമസ്കാരം മെക്കാനൊബയോളജിയുടെ ആമുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ലെക്ച്ചറുകളിലായി നമ്മൾ മൈഗ്രേഷനിലെ ആറ്റിൻ ചലനാത്മകതയെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ചലനാത്മകത ട്രാക്കുചെയ്യുന്നതിന് ഫ്ലൂറസെന്റ് സ്പെക്കിൾ മൈക്രോസ്കോപ്പിയുടെസാങ്കേതികത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മൈഗ്രേഷൻ സമയത്തെ ആക്റ്റിൻ മോണോമറുകളുടെ ചലനം ട്രാക്കുചെയ്യാനോ അളക്കാനോ ഫ്ലൂറസെന്റ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച ഒരു പേപ്പറിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എപ്പിത്തീലിയൽ സെല്ലുകളിൽ ലാമെല്ലിപോഡിയ ലാമെല്ല എന്നീ രണ്ട് സോണുകളുടെ അസ്തിത്വം ഉണ്ടെന്ന് രചയിതാക്കൾ കാണിച്ചു ലാമെല്ലിപോഡിയയിൽ നിങ്ങൾക്ക് വേഗത്തിൽ നീങ്ങുന്ന ഹ്രസ്വകാല സ്പെക്കിളുകളുണ്ട് അതേസമയം ലാമെല്ലയിൽLamella നിങ്ങൾക്ക് സാവധാനം നീങ്ങുന്ന ദീർഘായുസ്സുള്ള സ്പെക്കിളുകൾആണ് ഉള്ളത് ഇത് ഒരു വ്യത്യാസമാണ് ലീഡിങ് എഡ്ജിൻറെ മുൻനിരയിൽ നിന്ന് ആദ്യത്തെ 1 മുതൽ 2 മൈക്രോൺ വരെയാണ് ലാമെല്ലിപോഡിയ ഇതൊരു സെല്ലാണെങ്കിൽ നിങ്ങൾക്ക് മുൻവശത്തെ ഈ സോണിലായി ലാമെല്ലിപോഡിയയുണ്ട് അതിനാൽ ഇതാണ് നിങ്ങളുടെ ലാമെല്ലിപോഡിയ മേഖല തുടർന്ന് ഇത് നിങ്ങളുടെ ലാമെല്ലം ആണ് ഇതാണ് നിങ്ങളുടെ ലാമെല്ലിപോഡിയ ഇതാണ് മൈഗ്രേഷൻറെ ദിശ അപ്പോൾ ഈ സ്പെക്കിളുകളെല്ലാം പിന്നിലേക്ക് നീങ്ങുന്നു അതിനാൽ വ്യവസ്ഥ റിട്രോഗ്രേഡ് ഫ്ലോ അല്ലെങ്കിൽ പുറകിലോട്ടുള്ള ചലനം കാണിക്കുന്നു ഈ രണ്ട് ശൃംഖലകളായ ലാമെല്ലിപോഡിയയും ലാമെല്ലയും തന്മാത്രാ പരമായി വ്യത്യസ്തമാണെന്നും കൂടാതെ ബ്ലെബ്ബിസ്റ്റാറ്റിൻ പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ലാമെല്ലയിലെ മയോസിൻ II റിട്രോഗ്രേഡ് ഫ്ലോയ്ക് കാരണമാകുന്നുവെന്നും രചയിതാക്കൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു മയോസിൻ II ഇൻഹിബിറ്ററായ ബ്ലെബിസ്റ്റാറ്റിൻ സെല്ലുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ലാമെല്ലാർ മേഖലയിലെ റിട്രോഗ്രേഡ് ഫ്ലോ ഇല്ലാതാകും പക്ഷേ ലാമെല്ലിപോഡിയ മേഖലയിലെ റിട്രോഗ്രേഡ് ഫ്ലോ അപ്പോഴും നിലനിൽക്കുന്നു ഇന്നലെ നമ്മൾ അവസാനമായി ചർച്ച ചെയ്തത് എന്തെന്നാൽ ഒരു സെല്ലിൻറെ ആയുസ്സ് എടുക്കുന്നതിലൂടെ എങ്ങനെയാണ് ആക്റ്റിൻ ചലനാത്മകത പ്രായമാറ്റത്തിന് സംഭാവന ചെയ്യുന്നുവെന്നത് നിങ്ങൾക്ക് അറിയണമായിരുന്നു രചയിതാക്കൾ ചെയ്തത് എന്തെന്നാൽ അവർ ഈ ശൃംഖലയെ ചെറിയ ചെറിയ സോണുകളായി വേർപെടുത്തും നിങ്ങൾക്ക് ഒരു അറ്റത്തുനിന്നും 1 മുതൽ ലേബൽ ചെയ്തിട്ടുള്ള ഈ സോണുകൾ ഉണ്ട് ഈ അറ്റം 40 എന്ന് പറയട്ടെ നിങ്ങളുടെ x അക്ഷം സമയം ആണ് y അക്ഷത്തിൽ നിങ്ങൾക്ക് ലീഡിങ് എഡ്ജിലുള്ള എന്തു വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാം ഈ സ്ഥാനം 1 ഉം ഈ സ്ഥാനം 40 ഉം ആണ് 10 ആം സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു പോളിമറൈസേഷൻ ഇവന്റ് ഉണ്ടെന്ന് കരുതുക നിങ്ങൾ ശൃംഖല ടേൺ ഓവർ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 10 15 5 എന്നീ സ്ഥാനങ്ങളിൽ പോളിമറൈസേഷൻ ഇവന്റുകൾഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം നിങ്ങൾക്ക് 5 എന്ന ഈ സ്ഥാനത്ത് ഈ പ്രത്യേക സമയത്ത് ഇവിടെ പോളിമറൈസേഷനെ സൂചിപ്പിക്കുന്ന ഒരു പച്ച സിഗ്നൽ ലഭിക്കും 10 ആം സ്ഥാനത്തും പച്ച സിഗ്നൽ കൂടാതെ 15 ആം സ്ഥാനത്ത് മറ്റെല്ലാ ബിന്ദുക്കളിലും നിങ്ങൾക്ക് ചുവന്ന സിഗ്നൽ ലഭിക്കും ഈ പ്രത്യേക സമയത്ത് ലീഡിങ് എഡ്ജിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തൽക്ഷണം രേഖപ്പെടുത്താൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു ഇതിന് വ്യത്യാസം സംഭവിക്കാം ഈ സമയത്ത് ലീഡിങ് എഡ്ജിൽ സംഭവിക്കുന്ന ചലനാത്മകത ഇതാണെങ്കിൽ അടുത്ത ക്ഷണം നിങ്ങൾ സമീപത്തെ ബിന്ദുവിൽ ഇവിടെ പച്ചയും ഇവിടെ ചുവപ്പും കണ്ടേക്കാം ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത ബിന്ദുവിൽ അടുത്ത ക്ഷണം ഒരു ഡിപോളറൈസേഷൻ ഇവന്റ് ഉണ്ടെന്നാണു അല്ലെങ്കിൽ നിങ്ങൾക്ക് ദീർഘനേരം പോളിമറൈസേഷൻ നടത്താം നിങ്ങൾക്ക് ഈ പ്രത്യേക ഘട്ടത്തിൽ ഒന്നിലധികം സമയ ബിന്ദുക്കൾ ഉണ്ടാകാം അപ്പോൾ ഇവിടെ പോളിമറൈസേഷൻ തുടർച്ചയായി നടക്കുന്നതായി നിങ്ങൾ കാണുന്നു ഇതു ടേൺ ഓവർ ആണ് എഡ്ജ് ഡിസ്പ്ലേസ്മെന്റിന് നിങ്ങൾക്ക് സമാന രീതിയിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയും സെൽ ഈ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ദിശ പോസിറ്റീവ് ആണ് ഈ ദിശ നെഗറ്റീവ് ആണ് അപ്പോൾ ഈ ദിശ നെഗറ്റീവ് ആണ് ഈ ദിശ പോസിറ്റീവ് ആണ് അതിനാൽനിങ്ങൾക്ക് ചുവപ്പ് ഉയർന്ന പോസിറ്റീവ് പരിധിയും നീല ഉയർന്ന നെഗറ്റീവ് പരിധിയും ഉള്ള നീളത്തിന്റെ ഒരു സ്കെയിൽ ഉണ്ട് നിങ്ങൾക്ക് തുടർച്ചയായ ഒരു സ്കെയിൽ ഉണ്ട് ഇത് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാൻ കഴിയും ഈ ബിന്ദുവിൽ സെൽ അതിവേഗം മൈഗ്രേറ്റ് ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം ഇതിനെ അടിസ്ഥാനമാക്കി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 15 ആം സ്ഥാനത്ത് എനിക്ക് പരമാവധി y ലഭിക്കും ഇവിടെ ഒരു പോളിമറൈസേഷൻ ഇവന്റ് ഉണ്ടാവും എനിക്ക് അവിടെ പോസിറ്റീവ് ദിശയിലുള്ള ഉയർന്ന എഡ്ജ് ഡിസ്പ്ലേസ്മെൻറ് കാണാൻ സാധിക്കും കൂടാതെ ഡി പോളിമറൈസേഷൻ നടന്നിട്ടുള്ളിടത്ത് എനിക്ക് സെൽ പിന്നോട്ട് ചലിക്കുന്നതിനെ അർത്ഥമാക്കുന്ന നെഗറ്റീവ് കാണാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരബന്ധിതമാണെന്ന് ഇവ സൂചിപ്പിക്കുന്നു ക്രോസ് കോറിലേഷൻ ചെയ്യുന്നതിലൂടെ ഈ വ്യക്തിഗത ഘടകങ്ങൾ തമ്മിലുള്ള കപ്ലിങ്ങ് നിങ്ങൾക്ക് ട്രാക്കുചെയ്യാനാകും അപ്പോൾ നിങ്ങൾക്ക് എഡ്ജ് ഡിസ്പ്ലേസ്മെന്റ് ശൃംഖല ടേൺ ഓവർ ഫ്ലോ എന്നിവ തമ്മിലുള്ള കപ്ലിങ് പഠിക്കുന്നതിനായി ക്രോസ് കോറിലേഷൻ ചെയ്യാൻ സാധിക്കും ഈ ക്രോസ് കോറിലേഷൻ എങ്ങനെയിരിക്കാമെന്നതിന് ഒരു മാതൃക പ്ലോട്ട് ഞാൻ വരയ്ക്കാം നിങ്ങൾക്ക് ഇവിടെ സമയമുണ്ട് ഇത് നിങ്ങളുടെ ക്രോസ് കോറലേഷൻ ആണ് ഇത് എന്റെ 0 ആണ് കൂടാതെ ഇതും എന്റെ 0 ആണ് ഈ പൂജ്യത്തെ നിങ്ങൾക്ക് ലാഗ് ടൈം എന്നും ഈ പൂജ്യത്തെ ക്രോസ് കോറിലേഷൻ എന്നും പറയാം നിങ്ങൾക്ക് പോസിറ്റീവ് ക്രോസ് കോറിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആയ ക്രോസ് കോറിലേഷൻ ഉണ്ടാവാം ഏതെങ്കിലും രണ്ട് വസ്തുക്കൾക്കിടയിൽ പോസിറ്റീവ് ക്രോസ് കോറിലേഷൻ ഉണ്ടെന്നത് അർത്ഥമാക്കുന്നത് ഒരു ഘടകം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ഘടകവും പോസിറ്റീവ് ആയിരിക്കും എന്നാണ് രചയിതാക്കൾ കണ്ടെത്തിയത് എന്തെന്നാൽ അവർ മൂന്ന് കാര്യങ്ങൾ തമ്മിൽ ക്രോസ് കോറിലേഷൻ നടത്തി എഡ്ജ് ഡിസ്പ്ലേസ്മെന്റിനെ E എന്നും ശൃംഖല ടേൺ ഓവറിനെ T എന്നും ഫ്ലോയെ F എന്നും വിളിക്കുന്നുവെന്ന് നമുക്ക് പറയാം ആദ്യം നമുക്ക് E വേഴ്സസ് T പ്ലോട്ട് ചെയ്യാം അവർ കണ്ടെത്തിയത് ഇതുപോലെയുള്ള ഒരു കർവ് ഉണ്ടാവും എന്നതാണ് ഞാൻ കർവ് വരച്ച രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് സൂചിപ്പിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോസിറ്റീവ് കോറിലേഷൻഉണ്ട് എന്നാൽ മറ്റുള്ളവയിൽ ഇത് കൂടുതലും 0 അല്ലെങ്കിൽ ബേസ്ലൈൻ ആണ് ഇനി ഞാൻ F വേഴ്സസ് ടേൺ ഓവർ വരയ്ക്കട്ടെ F ഫ്ലോ ആണ് അപ്പോൾ F ടേൺ ഓവർ എന്നിവ നെഗറ്റീവ് കോറിലേഷൻ കാണിക്കുന്നു എന്നാൽ E ടേൺ ഓവർ എന്നിവ തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം E ടേൺ ഓവർ എന്നിവ പരസ്പര ബന്ധമുള്ളപ്പോൾ അവയ്ക്ക് ഇടയിലുള്ള പോസിറ്റീവ് പീക്കിന്ഇടത് വശത്തേക്ക് ചായ്വുണ്ട് അപ്പോൾ E വേഴ്സസ് T യുടെ പീക്ക് F വേഴ്സസ് T യുടെതിന് അല്പം ഇടതുവശത്തായി ആണ് ഉള്ളത് ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ താൽക്കാലികമായി ഉണ്ടാവുന്ന സംഭവങ്ങളുടെ ക്രമങ്ങൾ സങ്കൽപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോളിമറൈസേഷൻ ഇവന്റ് ഉണ്ട്അത് ടേൺ ഓവറിനെ സൂചിപ്പിക്കുന്നു പോളിമറൈസേഷൻ ഇവന്റ് ആദ്യം മെംബ്രേയ്നെ തള്ളുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എഡ്ജ് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് ഈ ചുവന്ന കർവിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് ഉടനെ തന്നെ F T എന്നിവ തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട് അതിനാൽ ടേൺ ഓവർ പോസിറ്റീവ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു പോളിമറൈസേഷൻ ഇവന്റ് ഉണ്ട് ഫ്ലോ നെഗറ്റീവ് ആണ് അതിനർത്ഥം റിട്രോഗ്രേഡ് ഫ്ലോ ഉണ്ട് എന്നതാണ് സംഭവിക്കുന്നത് എന്തെന്നാൽ പോളിമറൈസേഷൻ മെംബ്രേയ്നെ തള്ളുന്നു ഇത് എന്റെ ആദ്യത്തെ ഘട്ടമാണ് ഓരോ പ്രവർത്തനത്തിനും അതിനു തുല്യവും വിപരീതവുമായ പ്രതികരണമുണ്ട് എന്ന് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോളിമറൈസ് ചെയ്യുന്ന ആക്റ്റിൻ ഫിലമെന്റ് Actin filament മെംബ്രേയ്നെ തള്ളുകയാണെങ്കിൽ മെംബ്രേയ്ൻ തിരിച്ച് ഫിലമെന്റിനെപിന്നിലേക്ക് തള്ളും അപ്പോൾ മെംബ്രേയ്ൻ ഫിലമെന്റിനെ വിപരീത ദിശയിലേക്ക് തള്ളുന്നു അതിൻറെ പരിണതഫലമായി എന്താണ് സംഭവിക്കുക മെംബ്രേയ്ൻ ഫിലമെന്റിനെ പിന്നിലേക്ക് തള്ളിയാൽ ഇത് റിട്രോഗ്രേഡ് ഫ്ളോയിലേക്ക് നയിക്കും വീണ്ടും നോക്കുകയാണെങ്കിൽ ക്രോസ് കോറിലേഷൻറെ അടിസ്ഥാനത്തിൽ ഉള്ള സംഭവങ്ങളുടെ സമയക്രമമാണ് ഇത് എഡ്ജ് വേഴ്സസ് ടേൺ ഓവറിന് നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ട് കൂടാതെ ആ പോസിറ്റീവ് പീക്കിന് തൊട്ടുപിന്നിൽ എഡ്ജ് മുന്നോട്ട് ചലിക്കുമ്പോൾ നിങ്ങളുടെ കോറിലേഷൻ correlation വീണ്ടും താഴ്ന്നു അതിനോട് അനുബന്ധിച്ച് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ ഫ്ലോ പിന്നിലേക്ക് ആയിരുന്നു ടേൺ ഓവർ പോസിറ്റീവും ഫ്ലോ പിന്നിലേക്കും ആയതിനാൽ നമുക്ക് ഒരു നെഗറ്റീവ് കോറലേഷൻ ആണ് ഉള്ളത് സെല്ലുകളിൽ സൈറ്റോ ഡി അഥവാ സൈറ്റോകലാസിൻ ഡി എന്ന മരുന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ കർവുകൾക് എന്തു സംഭവിക്കും സൈറ്റോകലാസിൻ എന്താണ് ചെയ്യുന്നത് സൈറ്റോകലാസിൻ പ്രയോഗം ഫിലമെന്റുകളുടെ പോളിമറൈസേഷനെ തടയുന്നു അതിനാൽ ക്രോസ് കോറിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനിപ്പറയുന്നവയുണ്ട് ഇത് കാലതാമസ സമയമാണ് ഇത് ക്രോസ് കോറിലേഷൻ ആണ് അതിനാൽ ഇത് 0ഇതും 0 ആണ് ഇത് ക്രോസ് കോറിലേഷൻആണ് ഈ ചുവപ്പു നിറം എഡ്ജ് ഡിസ്പ്ലേസ്മെന്റാണ് E വേഴ്സസ് T തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ല എന്നാൽ നിങ്ങൾ എഡ്ജ് ഡിസ്പ്ലേസ്മെൻറും ഫ്ലോയും തമ്മിൽ കോറിലേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണുക ഇതുപോലുള്ള ഒരു കർവ് ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഫ്ലോ ശൃംഖല ടേൺ ഓവർ കൂടുതലും നെഗറ്റീവ് ആണ് കാരണം ഇവിടെ പുതിയ പോളിമറൈസേഷൻ ഇല്ല ഇത് നെഗറ്റീവ് ആണ് നമ്മൾ E വേഴ്സസ് F അഥവാ E വേഴ്സസ് ഫ്ലോ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എഡ്ജ് ഡിസ്പ്ലേസ്മെന്റ് പിന്നോക്കമാണ് എനിക്ക് സൈറ്റോകലാസിൻ ഡി ക്ക് ശേഷമുള്ള കർവ് വരയ്ക്കണമെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ ഇത് നിങ്ങളുടെ ലീഡിങ് എഡ്ജ് ആണെങ്കിൽ വ്യത്യസ്ത സമയ ബിന്ദുക്കളിൽ ഈ ലീഡിങ് എഡ്ജ് പിൻവലിയുന്നു അതായത് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ലീഡിങ് എഡ്ജ് പിന്നിലോട്ട് ചലിക്കുന്നു കൂടാതെ ഇത് റെട്രോഗ്രേഡ് ഫ്ലോയുമായി കോറിലേറ്റ് ചെയ്യുന്നു ഇത് സൂചിപ്പിക്കുന്നത് സൈറ്റോകലാസിൻ ഡി ലാമെല്ലിപോഡിയയേ ഒഴിവാക്കുന്നു ആ കേസിൽ പിൻവലിയലിനെ നയിക്കുന്നത് എന്താണ് പിൻവലിയലിനെ നയിക്കുന്നത് ലാമെല്ല ആണ് ലാമെല്ലെയിൽഫിലമെന്റിനെ പുറകോട്ട് വലിക്കുന്ന മയോസിൻ II ഉണ്ട് നേരത്തെ നിങ്ങൾക്ക് ലീഡിങ് എഡ്ജിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു പിന്നിലേക്ക് തള്ളുന്നത് മെംബറേൻ ആണ് സൈറ്റോ ഡി ഉപയോഗിച്ച് ലാമെല്ലിപോഡിയയെ ഇല്ലാതാക്കുമ്പോൾ പിന്നെയുള്ളത് ലാമെല്ല നയിക്കുന്ന സെൽ എഡ്ജിന്റെ പിൻവലിക്കലാണ് ഞാൻ വീണ്ടും ലീഡിങ് എഡ്ജ് വരയ്ക്കുകയാണെങ്കിൽ ഇത് എന്റെ ഇന്റർഫേസ് ആണ് എനിക്ക് തുടക്കത്തിൽ ലാമെല്ലിപോഡിയയിലെ ഈ വേർപ്പെട്ടിട്ടുള്ള സോണുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഈ സോണുകളെ ലാമെല്ലോപോഡിയയുടെ പിന്നിലെ ലാമെല്ലയിലെ വേർപ്പെട്ടിട്ടുള്ള ഈ സോണുകളിലേക്ക് ഇതിനെ ഞാൻ വ്യാപിപ്പിച്ചു ഞാൻ ഈ ബിന്ദുവിലെ വെലോസിറ്റിയുമായി ഇത് എങ്ങനെ കോറിലേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ ഓരോ ബിന്ദുവിലെയും ലീഡിങ് എഡ്ജിലുള്ള ഫ്ലോ എനിക്ക് കാണാൻ സാധിക്കും കൂടാതെ അത് ലാമെല്ലയിലെഫ്ലോയുമായി എങ്ങനെ കോറിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾ കാണുക എന്തെന്നാൽ ഇത് വീണ്ടും സമയം ആണെന്ന് പറയാം ഓരോ സമയത്തും ഫ്ലോ പുറകിലോട്ട് ആയതിനാൽ നിങ്ങളുടെ വെലോസിറ്റി സ്കെയിൽ യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആണ് അത് പൂജ്യത്തിൽ നിന്നും തുടങ്ങുന്നു ഇത് 15 മറ്റോ ആണെന്ന് നമുക്ക് പറയാം ഓരോ സമയത്തും ലീഡിങ് എഡ്ജിൽ നിങ്ങൾക്ക് ഫ്ലോ ഉണ്ട് ഞാൻ വരച്ചത് എപ്രകാരമാണെന്നാൽ ലീഡിങ് എഡ്ജിലെ ഫ്ലോ ലാമെല്ലയിലെ ഫ്ലോയുമായി കൃത്യമായി ഒരേപോലെ വരുന്നു അതിനാൽ എഡ്ജ് ചലനത്തിന്റെയും റിട്രോഗ്രേഡ് ഫ്ലോയുടെയും ഒരു പീരിയോഡിസിറ്റി ഉണ്ട് ഇത് എഡ്ജ് ചലനത്തിന്റെയും റിട്രോഗ്രേഡ് ഫ്ലോയുടെയും പീരിയോഡിസിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എഡ്ജ് പിന്നിലേക്ക് നീങ്ങുമ്പോഴെല്ലാം ലാമെല്ലയും പിന്നിലേക്ക് നീങ്ങുന്നു ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് സാധ്യതകളാണുള്ളത് എന്നാണ് നിങ്ങൾക്ക് ലീഡിങ് എഡ്ജ് ഉണ്ട് ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ പ്രാദേശിക പ്രോട്രൂഷൻ ഉണ്ടായിരുന്നുവെന്ന് പറയാം ഞാൻ രണ്ട് വ്യത്യസ്ത കോൺഫിഗറേഷനുകളിൽ ലീഡിങ് എഡ്ജ് മെംബ്രേൻ ഓവർലാപ്പ് ചെയ്യുന്നു ഇത് t പ്ലസ് ഡെൽറ്റ t t∆tആണ് ഇത് t ആണ് സെൽ ഈ ദിശയിലേക്ക് നീങ്ങുന്നു ഈ പ്രൊട്രുഷനിൽ പ്രാദേശികമായി സംഭവിക്കാവുന്ന ഒരു സാധ്യത ഉള്ളത് ലാമെല്ലിപോഡിയ വികസിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു സാധ്യത ലാമെല്ല വികസിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഈ രണ്ട് സാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലാമെല്ലിപോഡിയ വികസിക്കുകയും ഈ പ്രൊട്രുഷൻ വളരെ പ്രാദേശികവും ആണെങ്കിൽ ഇതിനർത്ഥം ലാമെല്ലിപോഡിയയുടെ ഘനം വർദ്ധിക്കുമെന്നാണ് എന്നാൽ ലാമെല്ല വികസിക്കുന്നുവെന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോട്രൂഷൻ ഇവന്റ് ഉണ്ടാകുമ്പോഴെല്ലാം പ്രൊട്രുഷൻ ഇവന്റിൽ നിന്നും സ്വതന്ത്രമായി ലാമെല്ലിപോഡിയയുടെ ഘനം അതേപടി തുടരും ലാമെല്ലിപോഡിയയുടെ ഘനം മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് രചയിതാക്കൾ കണ്ടെത്തി അതിനാൽ ലാമെല്ലിപോഡിയവികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഏതെങ്കിലും പ്രാദേശിക ഉണ്ടാവുകയാണെങ്കിൽ അവ എഡ്ജ് ഡിസ്പ്ലേസ്മെന്റും അതിനെ തുടർന്ന് വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആണ് ഇതിനർത്ഥം അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തുള്ള ലീഡിങ് എഡ്ജ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു പ്രാദേശിക വർദ്ധനവ് അഥവാ പ്രൊട്രുഷൻ ഈ ദിശയിൽ ഉണ്ടായി ലാമെല്ലിപോഡിയയുടെ പ്രാരംഭ സ്ഥാനം ഇതായിരുന്നുതുടർന്ന് അത് ഇങ്ങോട്ട് വ്യാപിച്ചു അതിനാൽ ലൊമെല്ലിപ്പോഡിയയുടെ ഈ സ്ഥാനം അതേപടി നിലനിൽക്കുന്നു എന്നാൽ ലാമെല്ലത്തിന്റെസ്ഥാനം വർദ്ധിക്കുന്നു അതിനാൽ ഇപ്പോൾ പ്രൊട്രുഷന്റെ കാര്യത്തിൽ ഇത് മുഴുവൻ ലാമെല്ലയെ പ്രതിനിധീകരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ലാമെല്ലാർ വിപുലീകരണം ഉണ്ട് നിങ്ങൾക്ക് ഈ തുടർച്ചയായ റിട്രോഗ്രേഡ് ഫ്ലോ ഉണ്ടെന്ന് അഥവാ എന്തോ എന്ന് മുന്നോട്ട് ഒഴുകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം പോളിമറൈസ് ചെയ്യുന്ന ആക്റ്റിൻ ഫിലമെന്റുകൾ ലീഡിങ് എഡ്ജിനെ മുൻപിലോട്ട് തള്ളുന്നു മെംബ്രേയ്ൻ അവയെ തിരിച്ചു തള്ളുന്നു അപ്പോൾ അവ പിൻവലിയുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സെല്ലിന്റെ മൊത്തത്തിലുള്ള സ്ഥാനം മാറില്ല അത് കാറ്റ് അടിക്കുമ്പോഴെല്ലാം വായുവിൽ വീശുന്ന ഒരു തിരശ്ശീല പോലെയാണ് ഓരോ തവണയും കാറ്റുവീശുമ്പോൾ തിരശ്ശീല ചലിക്കുന്നു എന്നാൽ കാറ്റ് പോയിക്കഴിഞ്ഞാൽ തിരശ്ശീല പഴയ സ്ഥാനത്തേക്ക് മടങ്ങുന്നു എന്നാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ഥിരീകരണത്തിലേക്ക് നയിക്കുന്ന ഈ ലാമെല്ലാർ വികാസം ഉണ്ട് എന്താണ് സംഭവിക്കുക ചില ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ലീഡിങ് എഡ്ജ് ചലനവും ഈ ലീഡിങ് എഡ്ജിന്റെ വ്യതിയാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്താണ് രചയിതാക്കൾ എന്താണ് കണ്ടെത്തിയത് ഞാൻ ലീഡിങ് എഡ്ജ് വ്യാപനം സംഭവിച്ചിട്ടുള്ള മൂന്ന് സ്ഥാനങ്ങൾ വരച്ചിട്ടുണ്ട് ഇതാണ് ഇന്റർഫേസിന്റെ സ്ഥാനം എന്ന് നമുക്ക് പറയാം ഈ പ്രൊട്രുഷൻ സ്ഥിരതയുള്ളിടത്തെല്ലാം രചയിതാക്കൾ കണ്ടത് എന്തെന്നാൽ ലാമെല്ലാർ മേഖലയിലെ പ്രൊട്രുഷന് തൊട്ടുപിന്നിൽ ഫോക്കൽ അഡ്ഹെഷനുകൾ രൂപപ്പെട്ടതായി അവർ കണ്ടെത്തി ഫോക്കൽ അഡ്ഹെഷനുകളുടെ രൂപീകരണം ലീഡിങ് എഡ്ജിന്റെ ചലനത്തെ നയിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡാറ്റയെ Data സംഗ്രഹിക്കാം ഇത് ഒരു സെൽ മെംബ്രേയ്ൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റിൻ ഫിലമെന്റിന്റെ രണ്ടു ശൃംഖലകൾ ഉണ്ട് ഒന്ന് ഇവിടെയുണ്ട് അടുത്ത ശൃംഖല ഇവിടെയും ചിലയിടങ്ങളിൽ ഓവർലാപ്പ് ഉണ്ട് ഓവർലാപ്പിന്റെ ഈ സ്ഥാനങ്ങളിൽ ഫോക്കൽ അഡ്ഹെഷനുകൾ ഉണ്ടാകുന്നു ഇതാണ് നിങ്ങളുടെ ലാമെല്ലിപോഡിയൽ ശൃംഖല അഥവാ ലാമെല്ലിപോഡിയൽ ആക്റ്റിൻ ശൃംഖല ഇതാണ് നിങ്ങളുടെ ലാമെല്ലാർ ആക്റ്റിൻ ശൃംഖല ഇതാണ് നിങ്ങളുടെ ഫോക്കൽ അഡ്ഹെഷൻ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സെല്ലുകളിൽ മൈഗ്രേഷനെ നയിക്കുന്നത് കൈനെറ്റിക്കലിയും കൂടാതെ കൈനമാറ്റിക്കലിയുംവ്യത്യസ്തമായ രണ്ട് ആക്റ്റിൻ ശൃംഖലകളുടെ നിലനിൽപ്പാണ് എന്നാണ് ഈ നിരീക്ഷണങ്ങൾ ഫോക്കൽ അഡ്ഹെഷനുകൾ തന്മാത്രകളുടെ ക്ലച്ചായി പ്രവർത്തിക്കുന്നു എന്ന മൈഗ്രേഷനെ പറ്റിയുള്ള നമ്മുടെ ധാരണയിലേക്ക് നയിച്ചു സെല്ലിന്റെ മെംബ്രേയ്ൻ വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഇന്റഗ്രിനുകൾ ഉണ്ട് ഇവ എൻറെ ഫോക്കൽ അഡിഷനുകളാണെന്ന് പറയട്ടെ നിങ്ങൾക്ക് ഒരു ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ടെങ്കിൽ ഇതൊരു ആക്റ്റിൻ ഫിലമെന്റ് ആണ് കൂടാതെ സെല്ലിന്റെ മുൻപിലെ എഡ്ജിനോട് ചേരുന്ന മോണോമറുകൾ നിങ്ങൾക്കുണ്ട് അതിനാൽ ഈ ബന്ധനത്തിന്റെ അഭാവത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആക്റ്റിൻ മോണോമറുകൾ ചേരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിലമെന്റിന്റെ പിൻഭാഗത്ത് അവയെ പിന്നിലോട്ട് വലിക്കുന്ന മയോസിൻ ഉണ്ട് മയോസിൻ അവയെ വലിക്കുന്നത് റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് കാരണമാകുന്നു അതിനാൽ ആക്റ്റിൻ ഫിലമെന്റ് Actin ഇന്റഗ്രിനിലേക്ക് ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവയുടെ വിച്ഛേദിച്ച കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് എഡ്ജ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകില്ല പകരം നിങ്ങൾക്ക് റിട്രോഗ്രേഡ് ഫ്ലോ മാത്രമേ ഉണ്ടാകൂ എന്നാൽ ഫോക്കൽ അഡ്ഹെഷനാൽ ആക്റ്റിനുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് എൻറെ ആക്റ്റിൻ നിങ്ങൾക്ക് ലീഡിങ് എഡ്ജിൽ ഫിലമെൻറ് പോളിമറൈസേഷൻ ഉണ്ടാവാം ഇതാണ് നിങ്ങളുടെ പ്രോട്രൂഷൻഫിലമെന്റുകളെ വലിക്കുന്ന ആക്റ്റിൻ മോട്ടോറുകൾ ബെയ്സ് വലിയുന്നതിന് കാരണമാകുന്നു അതിനാൽ ഇതിനെ തന്മാത്ര ക്ലച്ച് എന്ന് വിളിക്കുന്നു ഇത് നമ്മുടെ കാറുകൾക്ക് സമാനമാണ് നിങ്ങളുടെ ക്ലച്ചുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇടപഴകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് ഗിയറിലായാലും കാറിന് ചലനമുണ്ടാകില്ല ക്ലച്ച് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ ചലനം ഉണ്ടാവുകയുള്ളൂ അതോടുകൂടി ഇന്നത്തേക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി പറയുന്നു